നമുക്ക് ഈ സർക്യൂട്ട് തന്നത് അതിലെ ഓപ് ആമ്പിന് ചിഹ്നങ്ങൾ ഒന്നും നിർണ്ണയിക്കാതെ ആണ് എന്ന് ഭാവിക്കാം ഇത് നമുക്ക് നേരത്തെ തന്നെ അറിയുന്ന സർക്യൂട്ടാണ് നമ്മൾ ഇത് കണ്ടുപിടിച്ചിട്ടുള്ളതാണ് ഓപ് ആമ്പ് നെഗറ്റീവ് ഫീഡ്ബാക്കിൽ ആയിരിക്കാൻ ഏതൊക്കെ ചിഹ്നങ്ങളാണ് വേണ്ടത് എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഇതുതന്നെയാണോ ശരിക്കുള്ള സാഹചര്യം എന്ന് നമ്മൾ ഇപ്പോൾ ഉറപ്പിക്കാൻ പോവുകയാണ് അതിനാൽ ചിഹ്നങ്ങളെ പറ്റി ഇപ്പോൾ നമ്മൾ യാതൊന്നും അനുമാനിക്കുന്നില്ല ഞാൻ അവയെ A എന്നും B എന്നും അടയാളപ്പെടുത്താൻ പോവുകയാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് A ഓപ് ആമ്പിൻറെ പോസിറ്റീവ് ടെർമിനൽ ആണോ അതോ നെഗറ്റീവ് ടെർമിനൽ ആണോ എന്നുള്ളതാണ് അതിനാൽ എന്താണ് ആദ്യത്തെ പടി ആദ്യത്തെ പടി ഓപ് ആമ്പിനെ നീക്കം ചെയ്യുകയും അതിൽ എവിടെയായിരുന്നോ ഓപ് ആമ്പിൻറെ ഔട്ട്പുട്ട് ഉണ്ടായിരുന്നത് അവിടെ VTEST ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുകയും എന്നുള്ളതാണ് ഇത് A ഉം ഇത് B ഉം ആണ് മാത്രമല്ല സർക്യൂട്ട്ലേക്കുള്ള സ്വതന്ത്ര ഇൻപുട്ടുകളെ ഞാൻ പൂജ്യം ആക്കി വെച്ചു ഇവിടെ ഞാൻ ഇതിനെ Vi എന്നാണ് കാണിച്ചിട്ടുള്ളത് അത് അർത്ഥമാക്കുന്നത് എന്തെന്നാൽ ഒരു വോൾട്ടേജ് ഉറവിടം അതുപോലെ ബന്ധിപ്പിച്ചിട്ടുണ്ട് എന്നും ഞാൻ അതിനെ പൂജ്യം ആക്കി വെച്ചു എന്നുമാണ് ഞാൻ Vi യെ പൂജ്യം ആക്കി വയ്ക്കുകയാണെങ്കിൽ അത് അർത്ഥമാക്കുന്നത് ഞാനതിനെ ഗ്രൌണ്ടു മായി ഷോർട്ട് സർക്യൂട്ട് ചെയ്തുവെന്നാണ് എന്നിട്ട് ഞാൻ വ്യത്യാസം VAB കണ്ടുപിടിക്കുന്നു ഇപ്പോൾ ഇത് വളരെ നിസ്സാരമായ സർക്യൂട്ടാണ് ഈ പോയിൻറ്നെ നയിക്കുന്ന വോൾട്ടേജ് VTEST ആണെങ്കിൽ ഈ പോയിൻറ്ൽ എനിക്ക് VTEST ൻറെ ഒരു അംശം അതായത് VTEST k ലഭിക്കും ഈ VAB എന്നുള്ളത് നോഡ് A ക്കും B ക്കും ഇടയിലുള്ള വോൾട്ടേജ് കളുടെ വ്യത്യാസമാണ് നോഡ് A യിലെ വോൾട്ടേജ് VA പൂജ്യമാണ് ആണ് പിന്നെ നോഡ് B യിലെ വോൾട്ടേജ് VTEST k ആണ് അതിനാൽ VAB എന്നുള്ളത് 0 VTEST k ആണ് അത് 1k x VTEST ആണ് അതിനാൽ ഇവിടെയുള്ള ആനുപാതിക സ്ഥിരാങ്കം α പൂജ്യത്തിനെക്കാൾ ചെറുതാണ് എന്നത് വ്യക്തമാണ് ഞാൻ മുൻപു പറഞ്ഞിരുന്നത് അനുസരിച്ച് ഇത് അർത്ഥമാക്കുന്നത് ഓപ് ആമ്പിൻറെ ടെർമിനൽ A പോസിറ്റീവ് ടെർമിനലും ടെർമിനൽ B നെഗറ്റീവ് ടെർമിനലും ആകണമെന്നാണ് മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് ചിഹ്നങ്ങൾ അതുപോലെ കൊടുക്കാമായിരുന്നു കാരണം നേരത്തെ ആ ചിഹ്നങ്ങൾ ഞാൻ ഉപയോഗിച്ചിരുന്നു അവ ശരിയാണെന്ന് നമുക്കറിയാം പക്ഷേ ഇങ്ങനെയാണ് അവ ശരിയാണെന്ന് വിശകലനത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം നിങ്ങൾ കാണുന്നതുപോലെ ഓപ് ആമ്പിൻറെ ഇൻപുട്ട് ആയ VAB 1k x VTEST ആണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ അനുമാനിച്ച ചിഹ്നങ്ങൾ പ്രകാരം ഇത് Vd ആണ് ഓപ് ആമ്പിൻറെ ഔട്ട്പുട്ട് വോൾട്ടേജ് ആയ V0 ക്കും Vi ക്കും വിധേയമായി Vd യെ വിലയിരുത്തിയാൽ എന്താണ് എനിക്ക് ലഭിക്കുക ഈ വോൾട്ടേജ് V0 k യും ഈ വോൾട്ടേജ് Vi യും ആണ് അതിനാൽ Vd എന്നത് Vi V0k ആണ് അഥവാ അടിസ്ഥാനപരമായി 1kV0 Vi ആണ് ഇപ്പോൾ Vd ലേക്ക് വരുന്ന Vi യുടെ ഭാഗം ഓപ് ആമ്പ് നെഗറ്റീവ് ഫീഡ്ബാക്കിൽ ആണോ എന്ന് വിശകലനം ചെയ്യാൻ ആവശ്യമില്ല ഈ ഭാഗം ഇതാണ് ഓപ് ആമ്പിൻറെ ഇൻപുട്ട് വ്യത്യാസത്തിലേക്ക് ഔട്ട്പുട്ടിൻറെ ഒരു നെഗറ്റീവ് ഗുണനം ലഭിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു അതിനാൽ ഇത് അർത്ഥമാക്കുന്നത് ഓപ് ആമ്പ് നെഗറ്റീവ് ഫീഡ്ബാക്കിൽ ആണ് എന്നാണ് ഇത് കാണിക്കുന്നത് നമ്മുടെ അൽഗോരിതം കൃത്യമായി പ്രവർത്തിക്കുന്നു എന്നാണ് പൊതുവേ ഓപ് ആമ്പ് നീക്കംചെയ്തു ഉറവിടം കൊടുത്തതിനു ശേഷം സർക്യൂട്ടിൻറെ ബാക്കി ഭാഗം വിശകലനം ചെയ്യാൻ വളരെ എളുപ്പമാണ് ഇവിടെ സർക്യൂട്ടിൻറെ ബാക്കി ഭാഗം വളരെ നിസാരമാണ് പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഇത് വളരെ സങ്കീർണം ആകാം എനിക്ക് മറ്റൊരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ ഉള്ളത് ചിലപ്പോൾ ഇങ്ങനെയും പറയാറുണ്ട് അതായത് നോക്കൂ ഇവിടെയാണ് ഔട്ട്പുട്ട് പിന്നെ ടെർമിനൽ B ലേക്ക് ആണ് ഫീഡ്ബാക്ക് എടുത്തിട്ടുള്ളത് നമുക്ക് വേണ്ടത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് അതിനാൽ ടെർമിനൽ B നെഗറ്റീവ് ആയിരിക്കണം കാരണം എന്തോ ഒന്ന് ടെർമിനൽ B ലേക്ക് മടങ്ങി വരുന്നുണ്ട് അപ്പോൾ ടെർമിനൽ B നെഗറ്റീവ് ആണെങ്കിൽ അവിടെ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ടാകുന്നു പക്ഷേ അങ്ങനെയൊരു വാദം ഗുരുതരമായ തെറ്റാണ് ഞാൻ ഇപ്പോൾ തന്നെ ഒരു ഉദാഹരണം കാണിക്കാം ഒരു കാര്യം ഇതാണ് അതായത് ഓപ് ആമ്പിൻറെ രണ്ട് ഇൻപുട്ടുകളും ഏതെങ്കിലും തരത്തിൽ ഔട്ട്പുട്ടുമായി ബന്ധിപ്പിച്ചിട്ടുള്ള സർക്യൂട്ടുകൾ ഉണ്ടാവാം ഈ സാഹചര്യത്തിൽ ടെർമിനൽ A ഓപ് ആമ്പിൻറെ ഔട്ട്പുട്ടുമായി ബന്ധിപ്പിച്ചിട്ടില്ല ടെർമിനൽ B മാത്രമാണ് ഈ നെറ്റ്വർക്ക് മുഖാന്തരം ബന്ധിപ്പിച്ചിട്ടുള്ളത് പക്ഷേ രണ്ടും ബന്ധിപ്പിച്ചിട്ടുള്ള സർക്യൂട്ടുകൾ ഉണ്ടാവാം ഇതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഓപ് ആമ്പിൻറെ രണ്ട് ടെർമിനലുകളും ഔട്ട്പുട്ടിൽ നിന്ന് ഫീഡ്ബാക്ക് സ്വീകരിക്കുന്നുണ്ടാവാം ഞാൻ സർക്യൂട്ട് വളരെ ചെറുതായി ഒന്ന് പരിഷ്കരിക്കട്ടെ ഗെയിൻ 1 ഉം ഫീഡ്ബാക്കും ഉള്ള ഒരു വോൾട്ടേജിനാൽ നിയന്ത്രിതമായ വോൾട്ടേജ് ഉറവിടം ഇവിടെ കൂട്ടിചേർക്കട്ടെ ഞാനിതിനെ Vx എന്നും ഇതിനെ 1 x Vx എന്നും വിളിക്കും പിന്നെ ഇതാണ് എൻറെ സർക്യൂട്ട് ഞാൻ എൻറെ ഇൻപുട്ട് വോൾട്ടേജ് ഇവിടെ കൊടുക്കും എന്നിട്ട് ഔട്ട്പുട്ട് അവിടെ എടുക്കും ഇപ്പോൾ ഓപ് ആമ്പ് നെഗറ്റീവ് ഫീഡ്ബാക്കിൽ ആയിരിക്കുന്നതിനായുള്ള ശരിയായ ചിഹ്നങ്ങൾ ലഭിക്കുന്നതിനായി നമുക്ക് സർക്യൂട്ട് വിശകലനം ചെയ്യാം എപ്പോഴത്തെയും പോലെ ഇവയാണു A യും B യും പിന്നെ ഇതാണു VAB ആദ്യപടി VTEST ഇവിടെ കൊടുക്കുക എന്നുള്ളതാണ് മാത്രമല്ല Vi പൂജ്യം ആക്കുകയും വേണം നോഡ് A യിലെ വോൾട്ടേജ് പൂജ്യമാണ് ഇവിടെ നമുക്ക് ഒരു റെസിസ്റ്റീവ് ഡിവൈഡർ ഉണ്ട് അതിൽ മുമ്പുണ്ടായിരുന്ന റെസിസ്റ്ററുകൾ ആയ R ഉം R ഉം ആണുള്ളത് ഇവിടെ VTEST കൊടുക്കുകയാണെങ്കിൽ നോഡ് B യിലെ വോൾട്ടേജ് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ പോയിൻറിൽ നമുക്ക് ലഭിച്ചത് VTEST ഹരണം k ആണ് ഇപ്പോൾ എനിക്കുള്ളത് ഗെയിൻ 1 ഉള്ള ഒരു നിയന്ത്രണ ഉറവിടമാണ് അതിനാൽ അത് അർത്ഥമാക്കുന്നത് എന്തെന്നാൽ ഈ പോയിൻറിൽ എനിക്ക് ഓർമ്മയുണ്ട് ഈ Vx എന്നത് VTEST k ആണ് അതിനാൽ ഈ പോയിൻറിൽ എനിക്കുള്ളത് VTEST k ആണ് അതിനാൽ വോൾട്ടേജ് VAB എന്നത് മറ്റൊന്നുമല്ല അത് പൂജ്യം എന്ന നോഡ് A യിലെ വോൾട്ടേജ് VTEST k യു നെഗറ്റീവായ നോഡ് B യിലെ വോൾട്ടേജ് ആണ് അതായത് ഇത് 1k x VTEST ആണ് അതിനാൽ ഇത് നേരത്തെ ഉണ്ടായിരുന്ന വോൾട്ടേജിൻറെ അതെ വ്യാപ്തി തന്നെയാണ് പക്ഷേ ചിഹ്നം നേർവിപരീതമാണ് ഇപ്പോൾ ഞാൻ വ്യക്തമായി വിവരിച്ചു തന്ന അൽഗോരിതം പ്രകാരം ഈ α പൂജ്യത്തെക്കാൾ വലുതാണ് അപ്പോൾ നിങ്ങൾ A നെ നെഗറ്റീവ് ടെർമിനൽ ആയും B നെ പോസിറ്റീവ് ടെർമിനൽ ആയും നിർണ്ണയിക്കണം അതിനാൽ ഫീഡ്ബാക്കിൽ ഗെയിൻ 1 ഉള്ള ഒരു നിയന്ത്രണ ഉറവിടം എനിക്ക് ഉണ്ട് അതിൽ ഇത് Vx ആണ് അങ്ങനെയെങ്കിൽ ഓപ് ആമ്പിൻറെ ഈ ടെർമിനലിലേക്ക് ഫീഡ്ബാക്ക് വരുന്നുണ്ട് അതിനാൽ ഇത് നെഗറ്റീവ് ആണ് എന്ന് എനിക്ക് ഒരിക്കലും വാദിക്കാൻ സാധിക്കുകയില്ല വാസ്തവത്തിൽ B പോസിറ്റീവ് ആയിരിക്കണം സർക്യൂട്ടിനു വേണ്ട യഥാർത്ഥ ചിഹ്നങ്ങൾ ഉം ഉം ആണ് അതിനാൽ ഏത് ടെർമിനലിലേക്ക് ആണോ വയർ തിരിച്ചുവരുന്നത് അത് നെഗറ്റീവ് ആണെന്ന തരത്തിലുള്ള അവ്യക്തമായ യുക്തിവാദങ്ങൾ ഉപയോഗിക്കരുത് ഓപ് ആമ്പ് നെഗറ്റീവ് ഫീഡ്ബാക്കിൽ ആകുന്നതിന് ഇത് ഒന്നുകിൽ പോസിറ്റീവോ അല്ലെങ്കിൽ നെഗറ്റീവോ ആകാം അതിനാൽ ഈ രീതി വളരെ എളുപ്പമാണ് ഞാൻ നേരത്തെ വിശദീകരിച്ചതുപോലെയും ഒരുദാഹരണം കാണിച്ചത് പോലെയും നിങ്ങൾക്ക് ഇത് വ്യവസ്ഥാനുസൃതമായി വിശകലനം ചെയ്യാൻ സാധിക്കും അതിനാൽ ഓപ് ആമ്പിൻറെ ചിഹ്നങ്ങൾ നിർണ്ണയിക്കേണ്ട ഏതു സർക്യൂട്ടിനും ദയവായി ഈ ഈ രീതി ഉപയോഗിക്കുക